നമുക്ക് ഇന്ന് മുൻ ആഴ്ചകളിൽ കണ്ട കാര്യങ്ങളുടെ മറ്റൊരു ഉദാഹരണം കാണാം ഇത് പൾസ് സെൻസറുമായി ബന്ധപ്പെട്ടതാണ് ആ സിസ്റ്റത്തിന്റെ ഹാർഡ്വെയർ സവിശേഷതകൾ എന്തൊക്കെയാ ണെന്ന് നോക്കാം ഞങ്ങൾ നേരത്തെ കാണിച്ച ഉദാഹരണം ഒന്ന് ഓർക്കുക ഇതിന് ഒരു എൻഎഫ്സി ഉണ്ടായിരുന്നു കൂടാതെ ബാറ്ററി ലെസ്സ് സിസ്റ്റവും ഉപയോഗിച്ചിരുന്നു പൾസ് ഫിംഗർ പൾസ് സിസ്റ്റത്തിലാണ് എൻഎഫ്സി നിർമ്മിച്ചിരിക്കുന്നത് ഒരു മൊബൈൽ ഫോൺ ഇതിന് അടുത്തുണ്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്തതിനാൽ ഒരു നിശ്ചിത സമയത്തേക്ക് ചാർജ് നിലനിൽക്കുന്നു ആ ഇടവേളയിൽ നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് മനുഷ്യന്റെ പൾസ് മനസ്സിലാക്കാനും ഡാറ്റ നേടാനും പ്രോസസ്സ് ചെയ്യാനും ഡാറ്റ കാണിച്ചു കൊടുക്കാനും കഴിയും ഇതെല്ലാം മൊബൈൽ ഫോണിലാണ് സംഭവിക്കുന്നത് ഇതിന്റെ അടുത്തതായി എന്താണ് നടക്കുന്നത് നിങ്ങൾ ശരിക്കും ലൂപ്പ് പൂർത്തിയാക്കി അനലിറ്റിക്സോ ഡാറ്റ ശേഖരണമോ വലിയ രീതിയിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ലൌഡ് അധിഷ്ഠിത സിസ്റ്റം ആവശ്യമാണ് അതിനാൽ ക്ലൌഡ് അധിഷ്ഠിത സിസ്റ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ എന്ന് നോക്കാം ഒരു പൾസ് സെൻസറിൽ നിന്നുള്ള അത്തരമൊരു ഡാറ്റ എങ്ങനെ ആരംഭിക്കും എൻഡ് ടു എൻഡ് ഐഒടി സിസ്റ്റത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇത് തുടങ്ങാം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സെൻസിംഗ് ഡാറ്റ ശേഖരണം പ്രോസസ്സിംഗ് ലോക്കലായി ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ് തുടർന്ന് ക്ലൌഡിലേക്ക് അപ്ലോഡ് ചെയ്യാം ക്ലൌഡ് അപ്ലോഡിനായി ഫയർ ബേസ് ഉപയോഗിക്കുന്നു ഞങ്ങൾ ഉടൻ തന്നെ ഈ ഫയർ ബേസിന്റെ വിശദാംശങ്ങളിലേക്ക് വരും പക്ഷേ ഇത് ഒരു മൊബൈൽ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഇത് ഫയർ ബേസാണ് വികസിപ്പിച്ചെടുത്തത് ഇത് 2014 ൽ ഗൂഗിൾ സ്വന്തമാക്കി അതിനാൽ നമുക്ക് ഒരു നല്ല ഫിഗറിലൂടെ ഇത് നോക്കാം ചില ബ്ലോക്ക് ലെവൽ ഡയഗ്രം കാണിക്കാം ഇതാണ് പൾസ് സെൻസർ ഇത് ഒരു മൊബൈൽ ഫോണിലേക്ക് BLE ലിങ്കിലൂടെ ഡാറ്റ കൈമാറുന്നു അതിനാൽ ഇത് ഈ ഹാർഡ്വെയറിന്റെ ഭാഗമാണ് ഇതിൽ ഒരു സെൻസർ കുറച്ച് മൈക്രോകൺട്രോളർ ചില സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു എല്ലാം കൂടി ചേർത്ത് ഇത് ഒരു പൾസ് സെൻസറായി പ്രവർത്തിക്കുന്നു അതിനാൽ ഈ ആരോ ഇവിടെ ചൂണ്ടിക്കാണിക്കണം ഇതൊരു BLE ലിങ്കാണ് ഇത് BLE നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൊബൈൽ ഫോണിലേക്ക് പോകുന്നു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ലോക്കൽ ഡിസ്പ്ലേക്ക് വേണ്ടിയുളള അപ്ലിക്കേഷൻ നമുക്ക് വികസിപ്പിച്ചെടുക്കാം മുമ്പത്തെ വീഡിയോകളിൽ ഞാൻ ഇത് നിങ്ങളെ കാണിച്ചിരുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു പൾസ് കിട്ടുന്നു പക്ഷേ ഇത് ഇവിടെ കാണാൻ കഴിയില്ല അതിനായി നിങ്ങൾ ക്ലൌഡിലേക്ക് 3ee ഒരു വൈഫൈ ലിങ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നേരിട്ട് 3 ജി 4 ജി ലിങ്കിലൂടെയോ നെറ്റ്വർക്കിലേക്ക് ആവശ്യമായ എല്ലാ API കളും ലഭിക്കുന്നതിനായി വിപുലീകരിക്കുക ഇത് വൈഫൈയിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് ഒരു വൈഫൈ റൂട്ടറിലൂടെയും വൈഫൈ റൂട്ടറിൽ നിന്ന് ക്ലൌഡിലേക്കും പോകുന്നു അതിനാൽ നിങ്ങളുടെ ഡാറ്റ ക്ലൌഡിൽ എവിടെയോ കണുന്നു ഈ ക്ലൌഡ് നിങ്ങൾക്ക് ഒരു ക്ലൌഡ് സെർവർ നൽകും കൂടാതെ നിങ്ങളുടെ ഡാറ്റ സുരക്ഷിതമായി വെക്കാനുള്ള ഫീച്ചറും ഇത് നൽകുന്നു ഡാറ്റ ലഭ്യമായികഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഡാറ്റ അനലിറ്റിക്സ് ചെയ്യാൻ കഴിയും തുടർന്ന് ഇതിൽ വിഷ്വലൈസേഷൻ നടത്തുക ഇത് പെർഫോർമെൻസിനെ അളക്കാവുന്ന രീതിയിലായിരിക്കണo ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി ഇത് ഈ ആർക്കിട്ടെക്ച്ചറിനെ കുറിച്ചാണ് അത് പ്രധാനമായും അബിലിറ്റിയെ അളക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശുപത്രിയെക്കുറിച്ച് സംസാരിക്കാം ആശുപത്രിയിൽ കിടക്കകളുടെ എണ്ണം രോഗികളുടെ എണ്ണം ഒരു നഴ്സിനെപ്പോലെയുള്ള ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവയുണ്ട് കിടക്കയിലെ ഓരോ രോഗികളിൽ നിന്നും പൾസ് താപനില രക്തസമ്മർദ്ദo തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്നു നഴ്സ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫിൻറെ കൈയിലുള്ളത് ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് പൾസ് സെൻസർ വിരലിൽ ഇരിക്കുന്നു ഒപ്പം ഫോണുമായി പോകുന്നു അവിടെയുള്ള ഫോണിനെ കപ്പാസിറ്ററിൽ നിന്ന് ചാർജ് ചെയ്യുന്നു അത് മൊഡ്യൂളിനെ പവർ ചെയ്യുകയും തുടർന്ന് എംബഡഡ് മൊഡ്യൂളിനെ അളക്കുകയും ആ പൾസ് BLE ലിങ്കിലൂടെ മൊബൈൽ ഫോണിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു എൻഎഫ്സി ലിങ്കും ഉപയോഗിക്കാം പക്ഷേ ഡാറ്റ കൃത്യമായി കാട്ടുന്നതിന് ഫോൺ എൻഎഫ്സി കോയിലിനോട് ചേർത്ത് പിടിക്കണം അതിനാൽ നിങ്ങൾക്ക് ഒരു BLE ലിങ്കിലൂടെ പ്രക്ഷേപണം ചെയ്യാനും കഴിയും മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്ത BLE മൊഡ്യൂളുകളിലൊന്നിൽ സുരക്ഷയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ BLE നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ BLE സുരക്ഷ നൽകുന്ന LE സുരക്ഷാ മൊഡ്യൂളിനെ കുറിച്ച് ഓർക്കുക ഇത് വളരെ ഇൻവോൾവ്ഡ് ആയ ഒരു പ്രക്രിയയാണ് ഓരോ പേഷ്യൻറ്റിന്റെയും അടുത്തു നിന്ന് വരുന്ന ഡാറ്റയുടെ സുരക്ഷയെകുറിച്ചും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനായി ഡാറ്റ എൻക്രിപ്ഷൻ ഉപയോഗിക്കാം ഇരുവശങ്ങളിലും ES കീ സെറ്റ് ചെയ്യാൻ കഴിയും കീ ഒന്നാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളു തുടർന്ന് പൾസ് വിവരങ്ങൾ ഫോണിൽ ദൃശ്യമാകുന്നു അതിനാൽ സ്കെയിലബിലിറ്റി വളരെ പ്രധാനമാണ് ഇതാണ് എൻഡ് ടു എൻഡ് ഐഒടി സിസ്റ്റo ഇനി ഫയർ ബേസ് എന്താണെന്ന് മനസിലാക്കാൻ നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം എന്താണ് ഈ ക്ലൌഡ് APIH വികസന പ്ലാറ്റ്ഫോം അതിന്റെ പ്രധാന സവിശേഷതകൾ എന്താണ് ഇതിന്റെ പ്രധാന സവിശേഷതകളെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തു നോക്കാം വേഗത്തിൽ ഇതിനെ കുറിച്ച് ഞാൻ വിവരിക്കാം അടിസ്ഥാനപരമായി ഇത് ഒരു റിയൽ ടൈം ഡാറ്റാബേസാണ് ഇത് ബാക്ക് എൻഡ് ആയിരിക്കണമെന്ന് ഓർമ്മിക്കുക അല്ലാത്തപക്ഷം നൂറുകണക്കിന് രോഗികളിൽ നിന്നുള്ള ഡാറ്റയുടെ സ്കേലബിലിറ്റി സാധ്യമാകില്ല അടിസ്ഥാനപരമായി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചേർക്കാവുന്ന AIP നൽകുന്നു ഈ AlP ആൻഡ്രോയ്ഡിനും IOS സിനും മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കും ലഭ്യമാണ് ആൻഡ്രോയ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കും IOS സിസ്റ്റങ്ങൾക്കും ജാവ സ്ക്രിപ്റ്റുകൾക്കും ഇതിനായി ലൈബ്രറികൾ ലഭ്യമാണ് നോഡ് ഉൾപ്പെടെ നിരവധി അനുബന്ധ ആപ്പിക്കേഷനുകൾ നിങ്ങൾക്ക് ഇതിൽ നിർമിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തു തുടങ്ങാൻ പോകുന്നത് നിങ്ങളുടെ ഗൂഗിൾ അക്കൌണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ക്ലൌഡ് സെർവറിൽ അക്കൌണ്ട് ഉണ്ടാക്കാൻ കഴിയും നിങ്ങൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ തിരഞ്ഞെടുക്കാൻ കഴിയും ഇതിനെ സ്പാർക്ക് ഫ്രീ എന്ന് വിളിക്കുന്നു ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കാൻ കഴിയും അതിൽ നിങ്ങൾ റിയൽ ടൈം ഡാറ്റ ബേസ് തിരഞ്ഞെടുക്കുക മറ്റൊരു സാധ്യതയായി നിങ്ങൾക്ക് ഹോസ്റ്റിംഗ് തിരഞ്ഞെടുക്കാമായിരുന്നു റിയൽ ടൈം ഡാറ്റാബേസിൽ സുരക്ഷാ എനേബിൾ ചെയ്യാൻ കഴിയുന്നു ഇവിടെ ഡെമോയുടെ ആവശ്യങ്ങൾക്കായതിനാൽ ഞങ്ങൾ അത് ഓപ്പൺ സ്റ്റാറ്റിൽ ആണ് വെയ്ക്കുന്നത് അതിനാൽ ഞങ്ങൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ നിങ്ങൾക്ക് റിയൽ ടൈം ഡേറ്റാ ബേസ് സുരക്ഷയോടൊപ്പം കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കുന്നു ഈ ലിങ്ക് നിങ്ങൾ അപ്ലിക്കേഷനിലേക്ക് ഫീഡ് ചെയ്യേണ്ടതാണ് ഈ പ്രത്യേക ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ആൻഡ്രോയ്ഡ് അപ്ലിക്കേഷൻ വികസിപ്പിക്കുകയാണെന്ന് കരുതുക സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കാം അതിലൂടെ ഒരു ആൻഡ്രോയ്ഡ് അപ്ലിക്കേഷനു വേണ്ടി ചെയ്തിട്ടുള്ള മുഴുവൻ ഇൻറ്റഗ്രേഷനുകളും നിങ്ങൾ ശരിക്കും വിലമതിക്കും അതിനു മുൻപായി ഇതിനെ കുറിച്ച് ഒരു ഓവർ വ്യു നിങ്ങൾക്ക് തരാം ആദ്യം ഞങ്ങൾ ആൻഡ്രോയ്ഡ് അപ്ലിക്കേഷനിലേക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും തുടർന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് ഡിപൻഡൻസികൾ ആഡ് ചെയ്യാം ഒടുവിൽ നിങ്ങൾക്ക് ഈ ഫയർ ബേസ് എപിഐയുടെ പാക്കേജ് വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു തുടർന്ന് നിങ്ങൾക്ക് യൂസർ ഇന്റർഫേസ് ലഭ്യമാകുന്നു യുഐ തയ്യാറായിക്കഴിഞ്ഞാൽ എല്ലാം ക്ലൌഡ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും ഇതാണ് സിസ്റ്റ് ത്തിന്റെ ഓവറോൾ വ്യു ഹാർഡ്വെയറിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം സെൻസർ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പവർ ആവശ്യകതകൾക്ക് വേണ്ടിയുള്ള കപ്പാസിറ്റർ എൻഎഫ്സിയുടെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഡെമോയുടെ ആദ്യ ഭാഗമായി ഫയർ ബേസ് എന്നറിയപ്പെടുന്ന ഈ ക്ലൌഡ് അധിഷ്ഠിത API വികസന പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാന സംയോജനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നോക്കാം പ്രോഗ്രാമറിനായുള്ള എപിഐയെ എപിഐ എന്ന് പറയാൻ കാരണം എന്തു കൊണ്ടെന്നാൻ പ്രോഗ്രാമർ ഉപയോഗിക്കുന്ന ലൈബ്രറികളാണിത് അടിസ്ഥാനപരമായി ഇത് ഒരു വികസന പ്ലാറ്റ്ഫോമാണ് അതിനാൽ നിങ്ങൾ ഒരു പ്രോഗ്രാമറിനായി പ്ലാറ്റ്ഫോം വികസിപ്പിക്കണം API വഴി ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യ ഭാഗം രണ്ടാമതായി ഇത് എങ്ങനെ പൾസ് സെൻസർ വെച്ച് ചെയ്യാം എന്നതാണ് അതായത് പൾസ് നിരക്ക് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് നമ്മൾ നോക്കണം ഇന്റർ ബീറ്റ് ഇടവേള കണക്കാക്കുന്നതിന് നിങ്ങൾ ഈ ഐആർ റിഫ്ലെക്റ്റീവ് തരം സെൻസർ എങ്ങനെ ഉപയോഗിക്കണം എന്നു നോക്കാം ഇതിനെ ഐ ഐ എന്നും വിളിക്കുന്നു അടിസ്ഥാനപരമായി ഒന്നിനു പുറകെ ഒന്നായി ഒരു ബീറ്റ് ഉണ്ട് അത് യൂണിഫോം ആയി കാണിക്കണം ഇതാണ് ഇന്റർ ഇൻറ്റർവെൽ ഇന്റർ ബീറ്റ് ഇൻറ്റർവെൽ കിട്ടുന്നതിന് നിങ്ങൾ ഇവിടെ ഒരു ടൈമർ ഇടുക ഇവിടെ എത്തുമ്പോൾ ടൈമർ നിർത്തുക ഇത് t2 ആണ് ഇത് t1 ആണ് t2 മൈനസ് t1 കണ്ടുപിടിക്കുക വീണ്ടും നിങ്ങൾക്ക് t3 കിട്ടും തുടർന്ന് നിങ്ങൾ t3 മൈനസ് t2 ചെയ്ത് വെയ്ക്കുക നിങ്ങൾക്ക് t4 കിട്ടും അതിനാൽ ഇത് t32 ആണ് ഇതിനെ t21 എന്ന് പറയാം t4 മൈനസ് t3 എന്നത് t 43 എന്നും വിളിക്കാം നിങ്ങൾ ഏകദേശം 10 സാമ്പിളുകൾ എടുക്കുക നിങ്ങൾക്ക് ലഭിച്ച ഈ 10 പൾസുകളുടെ ഐബിഐ ഇന്റർ ബീറ്റ് ഇൻറ്റർവെൽ എന്താണ് അത് യഥാർത്ഥത്തിൽ 10 സെക്കൻഡ് ആണ് നിങ്ങൾ ഇത് 10 പൾസുകൾക്കായി ചെയ്യുക അവിടെ നിന്ന് ഇന്റർ ബീറ്റ് ഇൻറ്റർവെൽ എന്താണെന്ന് കണ്ടു പിടിക്കണം അതിനെ 1 മിനിറ്റായി ഗുണിക്കുക ഒരു മിനിറ്റിന് നിങ്ങൾക്ക് എത്ര പൾസുകൾ ലഭിക്കുന്നു അതിനായി ഈ ഡിസ്പ്ലേ ഉപയോഗിക്കുക നിങ്ങൾക്ക് 80 പൾസുകൾ ആണെന്ന് പറയാം ഇനി 10 പൾസുകൾക്കായി നിങ്ങൾ ഇത് കണ്ടുപിടിക്കുക എന്നിട്ട് 60 പൾസുകൾക്കായുള്ള സമയം കണ്ടുപിടിക്കുക അതിനായി നിങ്ങൾ നേരത്തെ കിട്ടിയ സമയവുമായി ഗുണിച്ചാൽ മതി നിങ്ങൾക്ക് എത്ര നമ്പറാണോ കിട്ടുന്നത് അതിനെ സ്കെയിൽ ചെയ്യുക അതായത് 10 ന് വേണ്ടിയുള്ള സ്കെയിൽ 1 മിനിറ്റ് എന്ന ക്രമത്തിൽ എന്നിട്ട് ആ നമ്പർ നിങ്ങൾ ഇവിടെ കാണിക്കുക ഈ രീതിയിലാണ് നിങ്ങൾ ഇത് ചെയ്യണ്ടത് നോയിസ് കാരണം ഇത് മെഷർ ചെയ്യുന്നത് ഒരിക്കലും എളുപ്പമല്ല ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കു ഹൃദയമിടിപ്പ് തന്നെയാണ് പൾസ് പൾസുകൾ കൊണ്ട് നിങ്ങൾ ഇന്റർ ബീറ്റ് ഇൻറ്റർവെൽ കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഓരോ പൾസ് ലഭിക്കുമ്പോഴും നിങ്ങൾ പൾസ് വിവരങ്ങൾ റിക്കോഡ് ചെയ്യുക അതായത് ആദ്യത്തെ പൾസ് രണ്ടാമത്തെ പൾസ് എന്നിങ്ങനെ ഞങ്ങൾ ഇവിടെ പറഞ്ഞത് പോലെ ഓരോന്നും ഈ ചിത്രത്തിലെ ഒരു പൾസാണ് ഇതൊരു പൾസ് ആണ് ഇത് മറ്റൊരു പൾസാണ് നിങ്ങൾ ശരിയായ പൾസിലേക്കാണ് ബന്ധിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും തീർച്ചയായും ഇത് ഹൃദയമിടിപ്പ് മൂലമുള്ള ഒരു പൾസാണ് കാരണം നിങ്ങൾ ഒരു രക്തക്കുഴൽ എടുത്താൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദം ഉണ്ടാവും രക്തക്കുഴലിലേക്ക് രക്തം ഒഴുകുന്നത് തന്നെ രക്തസമ്മർദ്ദത്തിന്റെ അളവുകോലാണ് കൂടിയതും കുറഞ്ഞതുമായ സമ്മർദ്ദങ്ങളായ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് സമ്മർദ്ദങ്ങൾ ഡിക്രോറ്റിക് പൾസ് സൃഷ്ടിക്കും രക്തക്കുഴലാണ് ഡിക്രോറ്റിക് പൾസ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഡിക്രോറ്റിക് പൾസ് നീക്കംചെയ്യുന്നതിനായി ഒരു ഫിൽട്ടർ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഡിക്രോറ്റിക് പൾസ് നീക്കംചെയ്യാൻ നിങ്ങൾ ആംപ്ലിറ്റ്യൂഡിന് ഒരു ത്രെഷോൾഡ് നൽകുന്നത് വളരെ നല്ലതായിരിക്കും പൾസ് ആംപ്ലിറ്റ്യൂഡിൽ നിങ്ങൾ ഒരു ത്രെഷോൾഡ് ഇടുക തുടർന്ന് ഇന്റർ ബീറ്റ് ഇടവേള അളക്കുന്നതിനുള്ള ശരിയായ പൾസായി അതിനെ കണക്കാക്കാം ഇതാണ് അതിന്റെ രണ്ടാം ഭാഗo അതിനാൽ നമുക്ക് തിരികെ പോയി ഇത് പോപ്പുലേറ്റ് ചെയ്യാം ഒന്നും രണ്ടും ചെയ്തു കഴിഞ്ഞു ഒന്നും രണ്ടും ഡെമോകൾ പൂർത്തിയായി എൻഡ് ടു എൻഡ് ഐഒടി സിസ്റ്റങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡാറ്റ ലഭിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മിസ് മാധുരി ഇപ്പോൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ നോർഡിക് എസ്ഒസിയിൽ പ്രവർത്തിക്കുന്ന കോഡിന്റെ ഒരു ഡെമോ കാണിക്കാം സോഴ്സ് കോഡ് ഡിസ്പ്ലേ ചെയ്യുന്ന സ്ക്രീനിലേക്ക് നമ്മൾക്ക് ശ്രദ്ധിക്കാം സിസ്റ്റത്തെ പവർചെയ്യുന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല ആദ്യ പടിയായി എഡിസി യെക്കുറിച്ച് നോക്കാം NRF ADC ഇതിനകം തന്നെ നിലവിൽ ഉണ്ട് ഇത് 10 ബിറ്റ് എ സി ആണ് ആദ്യം ADC ഇനിഷ്യലൈസ് ചെയ്യുന്നു തുടർന്ന് അത് ടൈമർ ആരംഭിക്കുന്നു നിങ്ങൾക്ക് ടൈമർ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കു പൾസുക ളെ അളക്കാൻ ആരംഭിക്കുന്നതിനാൽ ടൈമർ ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ടൈമർ തുടങ്ങേണ്ടതുണ്ട് അവിടെ നിങ്ങൾ കണ്ട കോഡ് എഡിസി ആരംഭിക്കും ടൈമർ ആരംഭിക്കാനുമുള്ളതാണ് അതിനർത്ഥം പൾസുകൾ എണ്ണി തുടങ്ങാൻ പോകുന്നു എന്നതാണ് അതിനാൽ നമുക്ക് കോഡിലേക്ക് മടങ്ങാം കൂടാതെ കോഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞങ്ങൾ സമയം മില്ലിസെക്കൻഡിൽ ട്രാക്ക് ചെയ്യണം ഡൈക്രോട്ടിക് ശബ്ദം ഒഴിവാക്കുന്നതിനുള്ള അവസാന പൾസിനു ശേഷമുള്ള സമയം ലഭിക്കുന്നതിന് ഈ വേരിയബിൾ മോണിറ്റർ ഉപയോഗിച്ച് മില്ലിസെക്കൻഡിൽ സമയം ട്രാക്കുചെയ്യുക പൾസുകളെ എണ്ണാൻ നിങ്ങൾക്ക് വേവുകൾ ആവശ്യമാണ് വേവിൽ നിങ്ങൾക്ക് ഒരു പീകും ട്രഫും ഉണ്ട് അതിനാൽ നിങ്ങൾ ഒരു സാഹചര്യത്തിലും ഒരേ സമയം പുറപ്പെടുന്ന ഡൈക്രോട്ടിക് ശബ്ദം നോക്കരുത് അവസാന ഐബിഐയുടെ 3 മുതൽ 5 വരെ കാത്തിരിക്കുന്നതിലൂടെ ഡിക്രോറ്റിക് നോയ്സ് ഒഴിവാക്കാൻ കഴിയുന്നു ഈ ഐബിഐ എണ്ണാൻ തുടങ്ങാം 10 ഐബിഐ വാല്യുകൾ നമുക്ക് ഇവിടെ മൊത്തത്തിൽ കിട്ടി അടുത്തതായി നിങ്ങൾ റേറ്റ് അറയിലോട്ട് ഡാറ്റ മാറ്റുക ഏറ്റവും പഴയ മൂല്യം ഉപേക്ഷിക്കുക പഴയ 9 ഐബിഐ മൂല്യങ്ങൾ ചേർക്കുക നിങ്ങൾക്ക് 10 ലഭിക്കും ഒരു മിനിറ്റിനുള്ളിൽ എത്ര പൾസുകൾ ഇതിൽ അടങ്ങുന്നു അതാണ് നിങ്ങൾക്ക് ബീറ്റ് പെർ മിനിറ്റ് BPM അതിനാൽ ബിപിഎം കണക്കുകൂട്ടൽ നടത്തുന്നു ഇത് വളരെ ലളിതമായി കണ്ടുപിടിക്കാൻ കഴിയും നിങ്ങൾ 60 സെക്കൻഡ് റണ്ണിംഗ് ടോട്ടൽ കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് BPM ലഭിക്കും ഇനി ഇപ്പോൾ നിങ്ങൾ എന്തുചെയ്യണം നിങ്ങൾ ഇതിനകം BPM കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ വാല്യു ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത് നോക്കുക ഡാറ്റ ലഭിക്കുന്നതിനെക്കുറിച്ചും ഡാറ്റ പ്രോസസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഞങ്ങൾ പറഞ്ഞിരുന്നു അതിനാൽ നിങ്ങൾ ഇത് ബ്ലൂടൂത്ത് ലോ എനർജി പാക്കറ്റായി BLE ട്രാൻസ്മിഷനിലേക്ക് അയയ്ക്കണം m beacon info ADC വിവരങ്ങൾ BLE പാക്കറ്റിലേക്ക് ശേഖരിക്കുന്നു ഇപ്പോൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ് അതിനാൽ നിങ്ങൾ BLE കമ്മ്യൂണിക്കേഷനുവേണ്ടി അഭ്യർത്ഥിക്കുന്നു BLE സ്റ്റാക്ക് അഡ്വർടൈസ് ചെയ്യാൻ ആരംഭിക്കുകയും കണക്ഷൻ ഓറിയന്റഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് സംവിധാനം വഴി അയയ്ക്കുകയും ചെയ്യാം ഈ ഡെമോയിൽ ഞങ്ങൾ ഈ പൾസ് വിവരങ്ങൾ അഡ്വർടൈസ് ചെയ്യുന്നത് കാണിച്ചു തരാം എന്നിരുന്നാലും എൻക്രിപ്ഷൻ ഒരു പ്രധാന കാര്യമാണ് അഡ്വർടൈസ് പാക്കറ്റുകൾ എൻക്രിപ്റ്റ് ചെയ്യാൻ കഴിയും BLE BPM യഥാർത്ഥത്തിൽ ശേഖരിച്ച് ഒരു BLE പാക്കറ്റാക്കി മാറ്റുന്നു യഥാർത്ഥത്തിൽ റേഡിയോ BLE റേഡിയോയിൽ മാറുന്നില്ല അതിനർത്ഥം BLE സ്റ്റാക്കിന്റെ സമാരംഭം വളരെ പിന്നീട് മാത്രമേ സംഭവിക്കുന്നുള്ളു ഇതുവഴി എനർജി ഹാർവെസ്റ്റിംഗ് ആപ്ലിക്കേഷനുകൾക്ക് വളരെയധികം വൈദ്യുതി ലാഭിക്കാൻ കഴിയും ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങൾ റേഡിയോ സ്വിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുക ഈ സാഹചര്യത്തിൽ ഇത് അഡ്വർടൈസ് ചെയ്തിരിക്കുന്നു അതിനാൽ പൾസ് സെൻസറിനെ സംബന്ധിച്ചിടത്തോളം എംബഡഡ് കോഡിൽ സംഭവിക്കുന്നത് ഇതാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ വിഷയം ഫയർ ബേസിലേക്ക് മാറ്റാം ഒപ്പം ഫയർ ബേസിന്റെ സവിശേഷതകൾ കാണിക്കാൻ സുഹൈബും എന്റെ അടുത്തുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഘട്ടങ്ങളിലൂടെ കടന്നുപോകാം അത് നിങ്ങൾക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കുറച്ച് വ്യക്തത നൽകും ഒരു ഓതൻഡിക്കേഷൻ പ്രക്രിയയിലൂടെ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഡാറ്റാബേസിലേക്ക് ഡാറ്റ സംഭരിക്കാൻ കഴിയും ഓതൻഡിക്കേഷൻ ഒരു പ്രധാന ആവശ്യകതയാണ് അതിനാൽ ഡാറ്റാബേസ് ഓതൻടിക്കേറ്റഡ് ഡാറ്റാബേസ് സ്റ്റോറേജ് ഹോസ്റ്റിംഗ് ഫംഗ്ഷനുകൾ തുടങ്ങിയവ ക്രാഷ് റിപ്പോർട്ടുചെയ്യുന്നു ഇതെല്ലാം നിങ്ങൾക്ക് അടിസ്ഥാന വെബ് ആപ്ലിക്കേഷൻ വികസന പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ ഗൂഗിൾ അകൌണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ആരംഭിക്കുന്നത് ഞങ്ങൾ സെൻലാബ് ഡെസിന്റെ ഗൂഗിൾ അകൌണ്ട് ഉപയോഗിച്ചതായി നിങ്ങൾക്ക് കാണാം ഞങ്ങൾ അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഇവിടെ ഒരു നല്ല പ്രോജക്റ്റ് സൃഷ്ടിച്ചു ഈ ഡാറ്റാബേസ് ഉള്ള പ്രോജക്റ്റിന്റെ പേര് ഫയർ ബേസ് എന്നാണ് ഏതു തരത്തിലെ ഡാറ്റയാണ് അപ്ലോഡുചെയ്യുന്നത് അപ്ലോഡുചെയ്യുന്ന ഡാറ്റ സാമ്പിളുകളുടെ എണ്ണം എന്നിവ റെക്കോർഡുചെയ്യാനാകും ഈ അനലിറ്റിക്സ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവയിൽ ധാരാളം വിശകലനം ചെയ്യാൻ കഴിയും ഓതൻഡിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഓതൻഡിക്കേഷൻ സജ്ജമാക്കാൻ കഴിയും സെർവർ സൈഡ് കോഡുകൾ ഇല്ലാതെ വിവിധ ദാതാക്കളിൽ നിന്ന് ഉപയോക്താക്കളെ ഓതൻഡിക്കേറ്റ് ചെയ്യുകയും മാനേജുചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഇത് രസകരമാക്കാം ഒരു ആശുപത്രിയിലെ ഒരു രോഗിയിൽ നിന്ന് അളക്കാൻ ആഗ്രഹിക്കുന്ന പൾസ് ഡാറ്റയാണിത് ഇത് ഈ ക്ലൌഡ് സിസ്റ്റത്തിൽ ദൃശ്യമാകും തീർച്ചയായും മൊബൈൽ ഫോണിൽ ഒരു ലോക്കൽ ഡിസ്പ്ലേ ഉണ്ടായിരിക്കണം അത് ഒരു പരിചരണ ഉപകരണമാണ് എന്നാൽ അതേ വാല്യു ഡാറ്റാബേസ് ക്ലൌഡ് അധിഷ്ഠിത സെർവറിലും ദൃശ്യമാകും അതുകൊണ്ടാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത് തുടർന്ന് ഞങ്ങൾ റൂളുകളിലേക്ക് പോകേണ്ടതുണ്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാനും എഴുതാനും അടിസ്ഥാനപരമായി ഈ നിയമങ്ങൾ സെർവർ വശത്ത് തന്നെ പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇത് മറ്റൊരു കാര്യമാണ് ഹോസ്റ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സംഭരണം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ വിവരങ്ങൾ അടങ്ങിയ ഫയലിന്റെ പേര് അവിടെ സൂക്ഷിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ ഫയലുകൾ ആർക്കൈവുചെയ്യാനാകും ഒപ്പം എല്ലാ ഫയലുകളുടെ പ്രവർത്തനവും അവിടെ നിന്ന് സംഭവിക്കാം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫയൽ അപ്ലോഡുചെയ്യാനാകും ഒപ്പം എല്ലാ ഫയൽ മാനിപ്പുലേഷനുകളും സാധ്യമാണ് അതിനാൽ ക്രാഷ് റിപ്പോർട്ടിംഗ് അവരുടെ മറ്റ് സവിശേഷതകളിൽ ഒന്നാണ് പെർഫോർമൻസുകളും നോട്ടിഫിക്കേഷനുകളും ഒരു പ്രധാന കാര്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു തവണ നോട്ടിഫിക്കേഷനുകൾ ക്ലിക്കുചെയ്യാം അതിനാൽ അവിടെ കൃത്യമായി എന്താണ് കാണിക്കുന്നത് ശരിയായ ഉപയോക്താക്കളെ ശരിയായ സമയത്ത് ഇടപഴകുന്നതിനായി കാമ്പെയ്നുകൾ നിയന്ത്രിക്കുകയും സന്ദേശങ്ങൾ അയയ്ക്കുകയും ചെയ്യുക ഡാറ്റ നേടികഴിഞ്ഞാൽ പ്രധാനപ്പെട്ടതും രസകരവുമായ കാര്യങ്ങൾ സംഭവിക്കാം നിങ്ങൾക്ക് ആപ്പിൾ ഹാൻഡ് ഫോണുകളിലോ ആൻഡ്രോയിഡ് അധിഷ്ഠിത വികസന സംവിധാനങ്ങളിലോ ഇത് ചെയ്യാം നോട്ടിഫിക്കേഷനുകൾക്കായി ഈ സെർവർ സൈറ്റ് ഉപയോഗിക്കുക ഇതിന്റെ ഇടത് കോണിൽ നോക്കു അവരുടെ സ്പാർക് നിങ്ങൾക്കു കാണാൻ കഴിയും ഇത് പ്രതിമാസം 0 ഡോളർ അതായത് സൌജന്യമാണെന്ന് പറയുന്നു ഇത് നിങ്ങളുടെ എല്ലാ പരിശോധനകൾക്കും ട്രയലുകൾക്കും സൌജന്യ സ്പാർക്ക് മോഡലിനൊപ്പം പോകാൻ കഴിയുന്നതുമാണ് എന്നാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡുചെയ്യാനും കഴിയും പണമടച്ചുള്ള സബ്സ്ക്രിപ്ഷനായി പോകാനും നിങ്ങൾക്ക് പറ്റും രോഗികളുടെ പൾസ് എങ്ങനെ അളക്കാം എന്നു നോക്കാം ആ പൾസിന്റെ ലോക്കൽ ഡിസ്പ്ലേ ശ്രദ്ധിക്കുക തുടർന്ന് ആ വാല്യു ക്ലൌഡിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക ഞങ്ങൾ ഇത് ഒരു ലാബ് പരിതസ്ഥിതിയിൽ ചെയ്യുന്നതിനാൽ പൾസ് ന്യായമായ വാല്യു ആയിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം ചലനം സൃഷ്ടിക്കുന്ന ധാരാളം വസ്തുക്കൾ ഇവിടെ ഉണ്ടാകാം അതിനാൽ ചലനാത്മകതയാണ് പ്രധാന പ്രശ്നം അതിനാൽ ഇവിടെ ദൃശ്യമാകുന്ന യഥാർത്ഥ വാല്യുവിനെക്കുറിച്ച് വിഷമിക്കേണ്ട പക്ഷേ ഡാറ്റ അപ്ലോഡുചെയ്യുന്നതിലൂടെ എല്ലാം തടസ്സമില്ലാത്ത രീതിയിൽ സംഭവിക്കുന്നു രോഗി ധരിക്കുന്ന വിരൽ പൾസാണിത് കൺട്രോളർ ബ്ലൂടൂത്ത് ലോ എനർജി മൊഡ്യൂളും എൻഎഫ്സി കോയിലും ഉള്ള ഇലക്ട്രോണിക് ഉപകരണമാണിത് ഈ ഫോൺ ഇവിടെ സിസ്റ്റത്തിനടുത്തായി സ്ഥാപിക്കാൻ പോകുകയാണ് ഇത് പൾസിന്റെ വാല്യു പ്രദർശിപ്പിക്കുക മാത്രമല്ല ഡാറ്റ ക്ലൌഡിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ബാറ്ററി ലെസ്സായുള്ള സിസ്റ്റമാണ് എൻഎഫ്സി അതിനാൽ ഫോണിൽ നിന്നുള്ള എൻഎഫ്സി ഊർജ്ജം എൻഎഫ്സി കോയിൽ ഉപയോഗിച്ച് എംബഡഡ് മൊഡ്യൂളിലേക്ക് മാറ്റുന്നു മൈക്രോകൺട്രോളറിലെ സ്വിച്ചുകളിലൂടെ സിസ്റ്റം കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു മൈക്രോകൺട്രോളർ പിന്നീട് പൾസ് സെൻസറിനെ എനർജൈസ് ചെയ്യുന്നു പൾസ് സെൻസർ എഡിസി പോർട്ടിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു തുടർന്ന് എല്ലാ പൾസ് സെൻസറും കൺട്രോളർ ഐബിഐ കണക്കുകൂട്ടുന്ന ഡാറ്റ നേടുകയും അത് BLE ഫ്രെയിമിലേക്ക് പാക്കേജു ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് BLE ഡാറ്റയുടെ ഒരു എൻക്രിപ്ഷൻ നടക്കുന്നു ആ ഡാറ്റ ഗേറ്റ്വേയിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്നു ഇവിടെ ഈ ഇവന്റിൽ ഫോണിന് യഥാർത്ഥത്തിൽ ഇന്റർനെറ്റുമായി ഒരു കണക്ഷനുണ്ട് അതിനാൽ ഹൃദയമിടിപ്പ് മൊബൈൽ ഫോണിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതുപോലെ മിനിറ്റിന് 80 ബിറ്റ് ആയി നമുക്ക് കാണാം ക്ലൌഡ്ഡ് അധിഷ്ഠിത സിസ്റ്റത്തിലെ ഫയർ ബേസിലും ഇതേ നമ്പർ ദൃശ്യമാകുന്നു അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡാറ്റ ഇപ്പോൾ ക്ലൌഡിൽ ലഭ്യമാണ് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി നിരവധി രോഗികളിൽ നിന്ന് ഡാറ്റ എടുക്കുകയും ഓരോരുത്തരുടെയും ഡാറ്റ ഒരേസമയം വിശകലനം ചെയ്യാനും കഴിയും നിങ്ങൾക്ക് ഒരു രോഗിയുടെ പേര് നൽകാം കൂടാതെ രോഗിയുടെ പേരിനൊപ്പം പൾസ് വിവരങ്ങൾ നൽകാം അവസാനം ഒരു നിശ്ചിത സമയം പറയാം ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസ് എന്തായിരുന്നുവെന്ന് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയും 10 ദിവസം അല്ലെങ്കിൽ ഏത് സമയത്തും അതിനു കഴിയും അതിനാൽ ഒരർത്ഥത്തിൽ ഇതാണ് നിങ്ങളെ ഒരു എണ്ട് ടു എണ്ട് ഐഒടി സിസ്റ്റം നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക അതായത് നിങ്ങൾ മൊബൈൽ ഫോൺ ഒരു ഗേറ്റ്വേയായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു നിരവധി സെൻസറുകളിൽ നിന്ന് നിങ്ങൾ നേടുന്ന ഈ ഡാറ്റയെ കുറിച്ച് മുമ്പ് ഞങ്ങൾ കാണിച്ചിരുന്ന ക്ലൌഡ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നു എന്നിരുന്നാലും നോഡുകളെല്ലാം സിഗ്ബി പ്രാപ്തമാക്കിയ 15 ഡോട്ട് 4 നോഡുകളാണെന്ന് കരുതുക നിങ്ങൾക്ക് ഒരു സെൻസർ നോഡ് 1 ഉണ്ട് നിങ്ങൾക്ക് സെൻസർ നോഡ് 2 ഉണ്ട് അങ്ങനെ n സെൻസർ നോഡ് ഉണ്ട് ഈ n സെൻസർ നോഡുകളെല്ലാം IEEE 15 802 4 നോഡുകളാണ് ചില ഡാറ്റ ശരിയായി അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ചെയ്യുന്നതിനുള്ള ഒരു നല്ല മാർഗ്ഗം ഇതാണ് നിങ്ങൾക്ക് ഒരു സിഗ്ബി ഗേറ്റ്വേ ആവശ്യമുണ്ട് എന്നതാണ് ഒരു കാര്യം നിങ്ങൾക്ക് ഒരു സിഗ്ബീ ബേസ് സ്റ്റേഷൻ ആവശ്യമാണ് സിഗ്ബീ ബേസ് സ്റ്റേഷൻ നിരവധി സെൻസർ നോഡുകളിൽ നിന്നുള്ള ഡാറ്റ സമാഹരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു സീരിയൽ പോർട്ട് ഉള്ള ഒരു ബേസ് സ്റ്റേഷൻ സിസ്റ്റം ആണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ സീരിയൽ പോർട്ടിൽ ഡാറ്റ എത്തിയിരിക്കുന്നു റോബോക്കിറ്റുകളിൽ നിന്ന് 200 രൂപക്ക് നിങ്ങൾക്ക് ഒരു മോഡൽ വാങ്ങാം ഇപ്പോൾ നിങ്ങൾ ഒരു സീരിയൽ പോർട്ടിൽ കോൺഫിഗർ ചെയ്യുന്നു എന്നു കരുതുക റഫർ സമയം 3514 നിരക്കുകൾ പാരിറ്റി സ്റ്റോപ്പ് ബീറ്റ്സ് സ്റ്റാർട്ട് ബീറ്റ്സ് മുതലായവ വ്യക്തമാക്കുന്നു കാരണം നിങ്ങൾ ആ പാരാമീറ്ററുകൾ കോൺഫിഗർ ചെയ്യുന്ന AUR കോഡാണ് ഇത് ഒരു ബ്ലൂടൂത്ത് ലിങ്കിലൂടെ ഈ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാരണം ഇത് കമ്മ്യൂണിക്കേറ്റ് നടത്തുന്ന ഒരു ബ്ലൂടൂത്ത് ലിങ്കാണ് ഇപ്പോൾ ഈ ബ്ലൂടൂത്ത് ഡാറ്റ മൊബൈൽ ഫോണിലൂടെ പിടിക്കപ്പെടുന്നു സിഗ്ബി നോഡുകളിൽ നിന്ന് നേടിയ ഈ ഡാറ്റ ലളിതമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഫയർ ബേസ് ബാക്ക് എൻഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എല്ലാം കോംപാക്ട് ആക്കാൻ കഴിയും ഒരു മൊബൈൽ ഫോൺ UART യുഎസ്ബി പോർട്ട് എടുക്കുകയാണെങ്കിൽ ഈ യൂണിറ്റുകൾക്കെല്ലാം വൈദ്യുതി വിതരണവും ആവശ്യം വരുന്നില്ല പവർ യുഎസ്ബിയിൽ ലഭ്യമാണ് ഇപ്പോൾ ഞാൻ എന്തുചെയ്യും എന്ന് നോക്കുക ഈ സമ്പൂർണ്ണ ഇലക്ട്രോണിക്സിന് എനർജി നൽകാൻ ഞാൻ യുഎസ്ബി പവർ തന്നെ ഉപയോഗിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലഭിക്കും ഇതിനൊരു സിഗ്ബി ബേസ് സ്റ്റേഷനും ഒരു UART ഉം ഉണ്ട് ഇത് ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് പോകുന്നു ഇത് ഒരു വയർലെസ് ലിങ്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഈ കേബിൾ ഉപയോഗിച്ച് ഈ ബോക്സ് പവർ നൽകുകയും ചെയ്യുന്നു ഇവിടെ നിന്ന് ഈ ഫോണിലേക്ക് പവർ ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനുമായി പ്രത്യേകം ബ്ലൂടൂത്ത് മുകളിലുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഈ മൊഡ്യൂളിന് പവർ നൽകുന്നതിന് മാത്രമുള്ളതാണ് ഈ സിസ്റ്റത്തിന്റെ ഡെമോ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇവിടെ നിറം മാറുന്നത് കാണാൻ കഴിയും ഈ ഡാറ്റ 15 4 ലൂടെ ഈ സിസ്റ്റത്തിലേക്ക് വരുന്നു ഈ ഡാറ്റ UART പോർട്ടിലൂടെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് കൈമാറുന്നു ബ്ലൂടൂത്ത് വയർലെസായി ഈ ഫോണിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു സിസ്റ്റം യഥാർത്ഥത്തിൽ ഈ ഡാറ്റ സ്വീകരിക്കുന്നു ഈ ഡാറ്റ ഫോണിലായിക്കഴിഞ്ഞാൽ അത് ക്ലൌഡ് സെർവറിന്റെ ഫയർ ബേസിൽ എത്തുന്നു ഇപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൂടി നോക്കാം അത് തികച്ചും ആവേശകരമായ ഒന്നാണ് മൊബൈൽ ഫോൺ വളരെ പവർ ഫുള്ളായി മാറി കഴിഞ്ഞിരിക്കുന്നു ഇത് ഒരു ഗേറ്റ്വേയായും നിരവധി ആപ്ലിക്കേഷനുകൾക്കായി ഒരു എഡ്ജ് ഉപകരണമായും ഉപയോഗിക്കാം ഇത് വളരെ സമൃദ്ധമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ തന്നെ ഇരിക്കുന്ന വ്യത്യസ്ത തരം സെൻസറുകൾ ലഭ്യമാണ് ഉദാഹരണത്തിന് ഇതിന് ഇനേർഷ്യൽ മെഷർമെന്റ് യൂണിറ്റുകളായ ആക്സിലറോമീറ്റർ ഗൈറോസ്കോപ്പ് മാഗ്നെറ്റോമീറ്റർ മർദ്ദം അളക്കുന്നതിനുള്ള പ്രോക്സിമിറ്റി സെൻസറിനുള്ള ബാരോമീറ്റർ തുടങ്ങി ഫോണിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിരവധി സെൻസറുകൾ ലഭ്യമാണ് ഇപ്പോൾ നിങ്ങൾ ആക്സിലറോമീറ്റർ കാണണമെന്ന് കരുതുന്നുവെങ്കിൽ നമുക്ക് അതിനെ ഇൻഡോർ ലോക്കലൈസേഷൻ എന്ന് വിളിക്കാം അതിനാൽ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ലോക്കലൈസേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ഇവിടെ എഴുതിയ സ്ക്രീനിലേക്ക് നോക്കു ഇവിടെ ഞങ്ങൾ ഇൻഡോർ ലോക്കലൈസേഷൻ ചെയ്യാൻ പോകുകയാണ് അതിനാൽ പ്രധാനമായും നിങ്ങൾ IMU ഉപയോഗിക്കുക അതിൽ ആക്സിലറോമീറ്റർ അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ സെൻസർ ഉൾപ്പെട്ടിരിക്കുന്നു ഒരു കെട്ടിടത്തിനകത്ത് ഒരു മനുഷ്യൻ ഉണ്ടോയെന്ന് കണ്ടെത്തുക എന്ന വളരെ ലളിതമായ ഒരു കേസ് എടുക്കുക അവിടെ ഒരു നീണ്ട ഇടനാഴി ഉണ്ട് തുടർന്ന് ഒരു വഴിത്തിരിവ് ഉണ്ട് കെട്ടിടത്തിന്റെ വ്യത്യസ്ത നിലകളിൽ ഇത് സമാനമാണ് അതിനാൽ നിങ്ങൾ ഏത് നിലയിലാണെന്നും ആ നിലയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എവിടെയാണെന്നും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് എന്തുകൊണ്ട് പ്രധാനമാണ് നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഫയർ എക്സിറ്റ് എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്തണം ഒന്നാമതായി ഫയർ എവിടെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് നിങ്ങൾ അറിയുക നിങ്ങൾ തീയുടെ ദിശയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അടുത്തുള്ള ഫയർ എവിടെ അവിടെ നിന്ന് പുറത്തുകടക്കുന്നത് എങ്ങനെ ഇതുപയോഗിച്ച് നിങ്ങൾക്ക് സുരക്ഷിതമായി കെട്ടിടത്തിൽ നിന്ന് പുറത്തുകടക്കാൻ കഴിയും അത് ഒരു യൂസ് കേസാണെന്നും ഫയർ സെൻസു ചെയ്യാൻ ശ്രമിക്കുന്ന ധാരാളം സെൻസറുകളുണ്ടെന്നും നമുക്ക് പറയാം യൂസ് കേസിനെക്കുറിച്ച് ഞങ്ങൾ വിഷമിക്കേണ്ടതില്ല വാസ്തവത്തിൽ സിഡിഎസി ബാംഗ്ലൂരുമായി ഞങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ പക്ഷേ ഇത് കൂടാതെ ആരെയെങ്കിലും ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ ചെയ്യും അത്തരം സെൻസറുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഡാറ്റ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അത്തരം ഡാറ്റ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസിക് പേപ്പർ കാണിച്ചു തരാം ഈ പേപ്പർ നിങ്ങൾ ഡൌൺലോഡ് ചെയ്ത് വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം കംപാരറ്റീവ് അടാപ്ഷൻ ഓഫ് സ്റ്റെപ്പ് ഡിറ്റെക്ഷൻ ആൻ്റ് സ്റ്റെപ് ലെങ്ത് എസ്റ്റിമേറ്റേസ് ടു ആക്സിലറോമീറ്റർ എന്ന പേപ്പർ ലഭ്യമാണ് തൌഫിക് സയീദ് എറ്റൽ ആണ് പേപ്പറിന്റെ ഓതർ ഈ ചിത്രത്തിലേക്ക് നോക്കു ഞാൻ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ പിടിക്കുകയും ഈ ഫോൺ കൈവശം വയ്ക്കുകയും ചെയ്താൽ ഞാൻ ഇതിനെ ടെക്സ്റ്റിംഗ് മോഡ് എന്ന് വിളിക്കുന്നു ഞാൻ നടക്കുമ്പോൾ ഇതുപയോഗിച്ച് നടന്നാൽ ഇത് വാക്കിംഗ് മോഡ് ആകും എനിക്ക് ഒരു ഫോൺ കൈയ്യിൽ വെച്ച് ഇങ്ങനെ നടക്കാൻ കഴിയും അല്ലെങ്കിൽ കയ്യിൽ ഇതുപോലുള്ള ഒരു ഫോണുമായി ഞാൻ നടക്കും നിങ്ങൾ ഇടത് കൈയ്യൻ ആണെങ്കിൽ ഫോൺ ഈ കയ്യിൽ പിടിക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു കോംബിനേഷനും നടത്താം പരിഭ്രാന്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓടാനും സാധ്യത ഉണ്ട് ഈ ഫോൺ എങ്ങനെയാണ് ഓറിയന്റഡ് എന്ന് നോക്കുക ഇത് തികച്ചും ക്രമരഹിതമായ രീതിയിലാണ് നടക്കുന്നത് നിങ്ങൾ ഒരു ഇടത് കൈയ്യൻ ആണെങ്കിൽ അത് ഈ രീതിയിലാണ് പോകുന്നത് 3 ആക്സിസ് ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആക്സിലറോമീറ്റർ ഈ 3 ആക്സിസിന്റെ ഡാറ്റ നൽകുന്നു 3 ആക്സിസ് എന്താണെന്നും ഫോണിന്റെ x ആക്സിസ് y ആക്സിസ് z ആക്സിസ് എന്താണെന്നും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഫോൺ ഇതുപോലെ നീങ്ങുന്നുവെങ്കിൽ x ആക്സിസ് നീങ്ങുന്നു നിങ്ങൾക്ക് x ആക്സിസ് ഡാറ്റ ലഭിക്കും നിങ്ങൾ ഒരു പീക്കു കാണും നല്ല വേവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരം സിനുസോയ്ഡൽ കിട്ടുന്നു ഈ ദിശയിൽ നിങ്ങൾക്ക് ഒരു നല്ല തരംഗം ലഭിക്കും എന്നാൽ ഫോൺ ഇതുപോലെ നീങ്ങിയാൽ y ആക്സിസ് ഒരു പ്രബലമായ കാര്യമായി മാറും നിങ്ങൾ അത് മുന്നോട്ട് നീക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുകയാണ് എന്നാണ് അർത്ഥം ഒപ്പം നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ z ആക്സിസും നീങ്ങും ഇപ്പോൾ നിങ്ങൾ ഫോൺ കൈയിൽ പിടിച്ചിരിക്കുകയാണെന്നും നിങ്ങൾ നടക്കുകയാണെന്നും സങ്കൽപ്പിക്കുക അപ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് അൽപ്പം സങ്കൽപ്പിക്കുക y ആക്സിസ് മുകളിലേക്ക് പോകുന്നു ഇതാണ് y ആക്സിസ് ഇതാണ് z ആക്സിസ് ഇതാണ് x ആക്സിസ് അതിനാൽ ഒരു ചലനവും ഉണ്ടാകില്ല പക്ഷേ z തീർച്ചയായും മുകളിലേക്കും താഴേക്കും നീങ്ങിക്കൊണ്ടിരിക്കും അതിനാൽ നിങ്ങളുടെ ഹിപ് ചലനവും കാലിന്റെ ചലനവും സംഭവിക്കുമെന്ന് മനസ്റ്റിലാക്കുക ലെഗ് ചലനം നടക്കുമ്പോഴെല്ലാം z ആക്സിസ് താഴേക്ക് പോകുന്നു അതിനാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു നല്ല വേവ് കാണാനാകും മാത്രമല്ല നിങ്ങൾക്ക് ആ വേവിൽ നിന്ന് പലതും മനസ്സിലാക്കാനും കഴിയും അതിനാൽ എനിക്ക് അവ തമ്മിലുള്ള ദൂരം കണ്ടെത്താൻ കഴിയും നിങ്ങൾക്ക് ആ ഗ്രാഫ് നന്നായി പ്ലോട്ട് ചെയ്യാൻ കഴിയും ആ ഗ്രാഫിൽ നിന്ന് ഫോണിന്റെ ഉടമ യഥാർത്ഥത്തിൽ എത്ര സ്റ്റെപ്പുകൾ നടന്നു എന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും പക്ഷേ കുഴപ്പം സ്റ്റെപ്പുകളെക്കുറിച്ചല്ല അവൻ എത്ര ദൂരം സഞ്ചരിച്ചു എന്നതാണ് ചോദ്യം ഒന്നുകിൽ നിങ്ങൾ 5 സ്റ്റെപ്പുകൾ ഇവിടെ നടന്നിരിക്കാം അല്ലെങ്കിൽ 10 സ്റ്റെപ്പുകൾ എടുക്കാമായിരിക്കാം ഇത് ധാരാളം ആന്ത്രോപോമെട്രിക് ഡാറ്റയാണ് ഇത് വ്യക്തിയുടെ ഉയരമാണെങ്കിൽ സ്ട്രൈഡ് നീളം ശെരിയോ കൂടുതലോ കുറവോ എന്ന് ഊഹിക്കാൻ കഴിയും വ്യക്തിയുടെ സ്ട്രൈഡ് ദൈർഘ്യം എന്താണ് ആ ഡാറ്റ നമുക്ക് ലഭ്യമാണ് പക്ഷേ സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യും നിങ്ങൾക്ക് ഫോണുകൾ ഉപയോഗിച്ച് ഇത് ചെയ്യാം നിങ്ങളുടെ പക്കലുള്ള സെൻസറുകൾ ഉപയോഗിച്ച് ഇത് എങ്ങനെ ചെയ്യും ഈ പേപ്പർ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നു സ്റ്റെപ്പ് ഡിറ്റക്ഷൻ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം അത് എളുപ്പമാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് സ്റ്റെപ്പ് ലെങ്ത് എസ്റ്റിമേറ്റും സ്ട്രൈഡ് എസ്റ്റിമേറ്റും ചെയ്യാനാകും ഇവയാണ് 2 പ്രധാന കാര്യങ്ങൾ ഞങ്ങളുടെ ലാബിലെ പ്രവീൺ രാമസ്വാമി എഴുതി തയ്യാറാക്കിയ ഒരു ചെറിയ ഡോക്യുമെന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം ഞങ്ങൾ അത് വായിക്കുകയും ചർച്ച ചെയ്യുകയും അതിൽ നിന്ന് നിരവധി കാര്യങ്ങൾ ബന്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്തു തുടർന്ന് ഞാൻ ഈ ആപ്ലിക്കേഷനായുള്ള വെല്ലുവിളികളുമായി പൊരുത്തപ്പെടും അത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം നൽകും നിങ്ങൾക്ക് IMU കൾ ഉപയോഗിച്ച് എങ്ങനെ നിർമ്മിക്കാം നിങ്ങൾ എങ്ങനെ ഒരു പൂർണ്ണമായ ഇൻഡോർ ലോക്കലൈസേഷൻ ആപ്ലിക്കേഷൻ നിർമ്മിക്കും ഇപ്പോൾ പ്രവീൺ തയ്യാറാക്കിയ ഈ ചെറിയ പേപ്പറിലേക്ക് നമുക്ക് പോകാം ഇവിടെയുള്ള ഈ ചിത്രം ഞാൻ പറഞ്ഞ ഈ പേപ്പറിൽ നിന്നാണ് വരുന്നത് അതിനാൽ നമുക്ക് ഇവിടെ ഈ സ്ക്രീനിലേക്ക് തിരികെ പോയി സ്റ്റെപ് കണ്ടെത്തുനതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം അടിസ്ഥാനപരമായി സ്ട്രൈഡ് നീളം അല്ലെങ്കിൽ സ്റ്റെപ്പ് ലെങ്ത് നിങ്ങളോട് പറയുന്ന ഒന്നാണ് ഒരു വ്യക്തി ഉൾക്കൊള്ളുന്ന ദൂരം എന്താണ് വെയ്ൻബെർഗ് സമീപനം എന്നറിയപ്പെടുന്നതാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പേപ്പർ പറയുന്നു അടിസ്ഥാനപരമായി വെയ്ൻബെർഗ് സമീപനം ഒരു വ്യക്തിയുടെ കാൽപടിയിലെ വെർട്ടിക്കൽ ബൌൺസ് ആ വ്യക്തിയുടെ സ്ട്രൈഡ് നീളവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങൾ വായിക്കേണ്ട മനോഹരമായ പേപ്പറാണിത് ഓരോ പാദത്തിന്റെയും പീക്കുകളുടെ വ്യത്യാസത്തിൽ നിന്നാണ് ഈ ബൌൺസ് കണക്കാക്കുന്നത് വെയ്ൻബെർഗ് സ്ട്രൈഡ് ട്യൂറേ ഒരു സ്റ്റെപ്പു നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹിപ്പിന്റെ ഉയർന്ന വെർട്ടിക്കൽ ആക്സിലറേഷന്റെയും കുറഞ്ഞ വെർട്ടിക്കൽ ആക്സിലറേഷന്റെയും വ്യത്യാസത്തിന്റെ ഫംഗഷനായി പറഞ്ഞിരിക്കുന്നു ഈ രീതിക്ക് ഒരു കോമ്പിനേഷനും ആവശ്യമില്ല അതിനാൽ ഡ്രിഫ്റ്റ് ഇറർ ഒഴിവാക്കുന്നു ഇപ്പോൾ പീക്ക് ഡിറ്റക്ഷൻ അൽഗോരിതംസ് തികച്ചും ലളിതമാണ് പല അപ്ലിക്കേഷനുകളും യഥാർത്ഥത്തിൽ ഇസിജി ഉൾപ്പെടെ ഉപയോഗിക്കുന്നു മെഡിക്കൽ ഇസിജിയും ചിലതരം പീക്ക് ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്നു അത് നേരെ മുന്നോട്ട് പോകുന്നതായി തോന്നുന്നു ഈ പീക്കും വാലിയും കണ്ടെത്തുന്നതിന് ആക്സിലറോമീറ്ററിന്റെ വെർട്ടിക്കൽ ആക്സിലറേഷൻ റീഡിംഗുകളിൽ പീക്ക് ഡിറ്റക്ഷൻ അൽഗോരിതം പ്രയോഗിക്കുന്നു ഇപ്പോൾ ഇത് ഗൂഗിൾ നെക്സസ് 5 ഫോണിൽ പരീക്ഷിച്ച ഒരു സ്നാപ്പ്ഷോട്ടാണ് ഇതാണ് അദ്ദേഹത്തിന് ലഭിച്ച z ആക്സിസ് X ആക്സിസിൽ നിങ്ങൾ കാണുന്നത് സമയമാണ് നിങ്ങൾ കാണുന്ന y ആക്സിസ് ആക്സിലറേഷനാണ് കൂടാതെ ഓരോ തവണയും ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ പരമാവധി കുറഞ്ഞത് 1 ഉം മിനിമം 2 ഉം ഉണ്ട് അത് തീർച്ചയായും ഒരു സ്റ്റെപ്പ് അല്ലാതെ മറ്റൊന്നുമില്ല നിങ്ങൾക്ക് പരമാവധി മിനിറ്റ് കാണാനാകും ഇത് A ലൊക്കേഷനിൽ നിന്ന് ആരംഭിക്കുന്നു തുടർന്ന് ലൊക്കേഷൻ Bലേക്ക് പോയി C സ്ഥാനത്ത് എത്തുന്നു ഞാൻ ഈ ചിത്രം വീണ്ടും വരയ്ക്കട്ടെ അത് നിങ്ങളെ മനസിലാക്കാൻ സഹായിക്കും ഇതൊരു A ആണ് ഇത് B ആണ് ഇത് C ഇതാണ് A ഞാൻ 3 ബുള്ളറ്റുകൾ കാണിച്ചിട്ടുണ്ട് ഇത് ബി ഇത് സി വ്യക്തി ഇവിടെ നടന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് കുറച്ചുകൂടി വർണ്ണാഭമാക്കും ഞാൻ ഇത് ഇതുപോലെ കാണിക്കും ഓരോന്നും ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ അളക്കേണ്ട സ്ട്രൈഡ് നീളം ഇതാണ് ഇവിടെ ഒരു ചെറിയ ഡെഡ് സോൺ ഉണ്ട് ഇത് അവൻ തിരിയുന്ന ചെറിയ ഒരു സ്ഥലമാണ് അതാണ് നിങ്ങൾക്ക് ആക്സിലറേഷൻ ഇല്ലാത്ത സമയം കാരണം അവൻ ഇപ്പോൾ തിരിഞ്ഞു അവിടെ ഒരു സ്റ്റെപ്പുമില്ല അതിനുശേഷം അയാൾ വീണ്ടും നടക്കാൻ തുടങ്ങുന്നു അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് നടക്കാൻ തുടങ്ങുന്നു അതിനാൽ നമുക്ക് ഈ സ്ക്രീനിലേക്ക് മടങ്ങാം പ്രവീൺ പിടിച്ചെടുത്ത ഡാറ്റയെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതായി ഇവിടെയും നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ച് ഞങ്ങൾ സൂചിപ്പിച്ച പേപ്പർ ഉപയോഗിക്കുകയും സ്ട്രൈഡ് ദൈർഘ്യവും സ്റ്റെപ്പ് എണ്ണവും കണക്കാക്കുകയും വേണം See slide time 5134 ഇവിടെയുള്ള സ്ട്രൈയ്ഡ് ദൈർഘ്യം ഈ പദപ്രയോഗമാണ് നൽകുന്നത് k നിങ്ങളുടെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി പരീക്ഷണാത്മകമായി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാലിബ്രേറ്റിംഗ് കോൺസ്റ്റൻ്റ് ആണ് നിങ്ങൾക്ക് അവിടെ വളവുകൾ ഉള്ളതിൽ നിന്ന് പരമാവധി കുറഞ്ഞത് ലഭിക്കുന്നു 2 മിനിമകളുണ്ട് മിനിമം 1 ഉം മിനിമം 2 ഉം മിനിമം 1 ഉപയോഗിക്കുക നിങ്ങൾ ഇനി സ്ട്രൈഡ് ദൈർഘ്യം കണ്ടുപിടിക്കുക ഇത് വളരെ കൃത്യമായ ഫലങ്ങൾ നൽകുന്നതായി കാണാം മറ്റൊരു ചിത്രം കാണിച്ചുതരാം അത് ഇവിടെയുണ്ട് ഞങ്ങൾ കണക്കാക്കുന്നത് ഫോൺ പൂർണ്ണമായും ടെക്സ്റ്റിംഗ് മോഡിലുള്ളതാണ് അതായത് z ആക്സിസ് മാത്രം പിടിച്ചെടുക്കുന്നതാണ് എന്നാൽ വ്യക്തി എല്ലായ്പ്പോഴും ടെക്സ്റ്റിംഗ് മോഡിലായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് അവന് ഇപ്പോൾ ഫോൺ എടുക്കാൻ കഴിയും നിങ്ങൾ ഇപ്പോൾ കണ്ട ആ ഫലം ടെക്സ്റ്റിംഗ് മോഡിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു ടെക്സ്റ്റിംഗ് മോഡിൽ നിന്ന് അയാൾ പെട്ടെന്നു നടക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും അതിനാൽ ഡൈനാമിക്കലി നിങ്ങൾക്ക് ആക്സിലറോമീറ്ററിൽ നിന്ന് വരുന്ന മറ്റൊരു സിഗ്നേച്ചറിലേക്ക് മാറേണ്ടിവരുന്നു നിങ്ങൾക്ക് വീണ്ടും സ്റ്റെപ്പ് കൌണ്ടും നീളവും കണക്കാക്കാൻ കഴിയും സ്വിംഗിൽ ട്രwing നിന്ന് അയാൾ യഥാർത്ഥത്തിൽ ഓടാൻ തുടങ്ങും അതിനാൽ ഫോൺ ആക്സിസിൽ നിന്നും മാറുന്നു റണ്ണിംഗ് മോഡിന്റെ സിഗ്നേച്ചർ നിങ്ങൾ വീണ്ടും എടുക്കണം അത് റണ്ണിംഗ് മോഡിലാണെന്ന് നിങ്ങൾ കണ്ടെത്തണം ശബ്ദവും മറ്റൊന്നുമില്ല അവിടെ നിന്ന് നിങ്ങൾക്ക് വീണ്ടും സ്റ്റെപ്പ് ലെങ്ത് സ്ട്രൈഡ് ലെങ്ത് എസ്റ്റിമേറ്റ് എന്നിവ ചെയ്യാൻ കഴിയും അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് കെട്ടിടത്തിലേക്ക് മനുഷ്യനെ ലോക്കലൈസ് ചെയ്യാൻ കഴിയൂ ഇപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു നമ്മൾക്ക് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം ഇവിടെ ഇടത് വശത്ത് ചലനങ്ങൾ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് വലതുവശത്ത് ടെക്സ്റ്റിംഗ് ഉണ്ട് തുടർന്ന് ടെക്സ്റ്റിംഗിൽ നിന്ന് സ്വിംഗിംഗ് മോഡിലേക്ക് ഓട്ടോമാറ്റിക് ഡിടെക്ഷൻ നടത്താൻ കഴിയുന്നു അതിനാൽ സിഗ്നേച്ചർ അല്പം മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വ്യത്യസ്ത ആക്സിസുകളും നിങ്ങൾ എങ്ങനെ പിടിച്ചെടുക്കുമെന്ന് മനസിലാക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുന്നു വീണ്ടും ഈ ചിത്രത്തിന് സെക്കൻഡിൽ ഒരു ചതുരശ്ര മീറ്ററാണ് ഈ ഡോക്യുമെന്റ് നോക്കുക തുടർന്ന് നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനാകുംതുടർന്ന് നിങ്ങൾക്ക് ദൂരം കണ്ടെത്താനാകും അതിനാൽ സെൽ ഫോണുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത് അതാണ് ഇൻഡോർ ലോക്കലൈസേഷന്റെ ആവശ്യങ്ങൾക്കായി സെൽ ഫോണുകൾ ഉപയോഗിക്കാമെന്ന് എനിക്കറിയാം ചില വെല്ലുവിളികളുമായി ഞാൻ എല്ലാം സംഗ്രഹിക്കാം അവ പരിഹരിക്കുന്നതിനും യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാനും ഒരു ആപ്ലിക്കേഷൻ ശരിയായി നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അതിനാൽ എന്താണ് വെല്ലുവിളികൾ IMU കൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഹൈ എന്റ് ഫോണുകളിലേക്കാണെന്ന് നൂറു ശതമാനം ഉറപ്പാക്കുക ഓരോ ഘട്ടത്തിലും ശബ്ദം നിങ്ങൾക്ക് വരുന്നു അതിനാൽ എംബഡഡ് സിസ്റ്റങ്ങളിൽ ശബ്ദം കുറയ്ക്കുന്നത് ഒരു പ്രധാന കാര്യമാണ് ആക്സിലറോമീറ്ററുകൾ വളരെ ഗൌരവമുള്ളതാണെന്ന വസ്തുത ശ്രദ്ധിക്കുക അതിനാൽ IMU കൾ വളരെ ഗൌരവമുള്ളതാണ് അതിനാൽ നിങ്ങൾ ഇത് ഒരു നല്ല ഫിൽട്ടറിലൂടെ കടത്തിവിടണം നിങ്ങൾക്ക് വ്യത്യസ്ത തരം ഫിൽട്ടറുകൾ പരിഗണിക്കേണ്ടി വന്നേക്കാം ആദ്യം റോ ഡാറ്റ ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ നിർദ്ദേശിക്കുന്നു മാറ്റ്ലാബ് പോലുള്ള ഒരു നല്ല പാക്കേജ് ഉപയോഗിച്ച് ഡാറ്റ ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനം കണ്ടെത്തുക അവിടെ വ്യത്യസ്ത ഫിൽറ്ററുകൾ പരീക്ഷിച്ച് നോക്കുക അവയിൽ ഏതാണ് നിങ്ങൾക്ക് സ്റ്റെപ്പ് ദൈർഘ്യവും സ്ട്രൈഡ് ദൈർഘ്യവും കണക്കാക്കുന്നത് എന്ന് നോക്കുക അതിനാൽ അനുയോജ്യമായവ ഏതൊക്കെയാണെന്ന് പരീക്ഷിക്കാൻ പല ഫിൽട്ടറുകൾ ഉപയോഗിച്ചു നോക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആക്ടിവിറ്റി ഡിടെക്ഷൻ ചെയ്യുക എന്നതാണ് ടെക്സ്റ്റിംഗ് മോഡിൽ തുടങ്ങി അത് സ്വിംഗിംഗ് മോഡിലേക്കും റണ്ണിംഗ് മോഡിലേക്കും പോകുന്നു ഇതിൽ ഒന്ന് ഈ മോഡുകൾ കണ്ടെത്തുക എന്നതാണ് മറ്റൊന്നാകട്ടെ കൂടുതൽ സങ്കീർണ്ണമായ കാര്യമാണ് ഓരോന്നിനും നിങ്ങൾ സ്റ്റെപ്പ് ലെങ്ത് സ്റ്റെപ്പ് കൌണ്ട് സ്റ്റെപ്പ് ഡിറ്റക്ഷൻ സ്ട്രൈഡ് ലെങ്ത് എസ്റ്റിമേറ്റ് എന്നിവ ചെയ്യണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ലോക്കലൈസേഷൻ നടത്താൻ കഴിയൂ അതിനാൽ ആക്ടിവിറ്റി ഡിടെക്ഷൻ എന്നതാണ് രണ്ടാമത്തെ വെല്ലുവിളി മൂന്നാമത്തെ കാര്യം വളരെ ലളിതമാണ് നിങ്ങൾ സ്വാഭാവിക ഇടത് കൈയ്യൻ അല്ലെങ്കിൽ വലതു കൈയ്യൻ ആണോ ഇടത് കൈയിൽ ടെക്സ്റ്റിംഗ് മോഡ് അല്ലെങ്കിൽ വലതു കൈയിൽ ടെക്സ്റ്റിംഗ് മോഡിന് കഴിയുമോ അതിനാൽ നിങ്ങൾ വലത് കൈയാണോ ഇടത് കൈയാണോ എന്നത് കണ്ടെത്തേണ്ടതുണ്ട് ഇത് മറ്റൊരു പ്രധാന കാര്യമാണ് അതിനാൽ ആത്യന്തികമായി നിങ്ങളുടെ ലക്ഷ്യം സ്റ്റെപ്പ് ലെങ്ത് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നതാണ് സ്റ്റെപ്പ് കൌണ്ടും സ്റ്റെപ്പ് ലെങ്തും എസ്റ്റിമേറ്റ് ചെയ്തതിനു ശേഷം ഇവ ഉപയോഗിച്ച് സ്റ്റെപ്പ് ഡിറ്റക്ഷൻ കൊണ്ടുവരിക എന്നതാണ് നിങ്ങൾക്ക് പാർട്ടിക്കിൾ ഫിൽട്ടറുകളുടെ ഉപയോഗം ഒഴിവാക്കാൻ കഴിയില്ല പാർട്ടിക്കിൾ ഫിൽട്ടറുകളുടെ ഉപയോഗം നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് പാർട്ടിക്കിൾ ഫിൽറ്ററുകൾ കണ്ടെത്താൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ നടക്കുമ്പോൾ അതിർത്തിയുടെ വലതുഭാഗം എവിടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിർത്തിയുടെ ഇടത് വശത്ത് എവിടെയാണ് നിങ്ങൾ എന്നത് കൃത്യമായി അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ലോക്കലൈസ് ചെയ്യാനാകും നിങ്ങളുടെ ഇടനാഴിയിൽ വ്യത്യസ്ത ഓഫീസുകളിലേക്ക് പോകുന്നതിനായുള്ള ഓപ്പണിംഗ് വാതിലുകൾ മറ്റും ഉണ്ടാകാം നിങ്ങൾക്ക് ശരിയായ മാപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റു ചില ഓഫീസ് കെട്ടിടങ്ങളിൽ പ്രവേശിക്കാം നിങ്ങൾ ശരിയായ സ്ഥലത്താകാം പ്രവേശിച്ചിട്ടുണ്ടെന്ന് ആപ്ലിക്കേഷൻ കരുതുന്നു അതിനാൽ ഈ കോഴ്സിൽ പാർട്ടിക്കിൾ ഫിൽട്ടറുകളുടെ ഉപയോഗം കണക്കാക്കിയില്ലെങ്കിൽ നിങ്ങൾ അനുചിതമായ ശരിയായ ഇമ്പ്ലിെമൻ്റ്റേറഷനിൽ എത്തണമെന്നില്ല അതിനാൽ ഓഫീസ് കെട്ടിടങ്ങളുടെ ഇടനാഴിയിലെ ലോക്കലൈസേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റെപ്പ് ഡിറ്റക്ഷനും പാർട്ടിക്കിൾ ഫിൽട്ടറുകളും ആവശ്യമാണ് എന്താണ് ഇതിന്റെ ത്രെഷ്ഹോൾട് പീക്ക് ഡിറ്റക്ഷൻ നിങ്ങൾ എങ്ങനെ ചെയ്യും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പീക്കകൾ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും ഇവിടെ പീക്ക് ഡിറ്റക്ഷൻ ഒരു പ്രധാന കാര്യമായി മാറുന്നു ഒരു ക്ലാസിക് പ്രശ്നം ഞാൻ കാണിച്ചുതരാം നിങ്ങളുടെ കൈയ്യിൽ ഫോൺ ഉണ്ട് പെട്ടെന്ന് കെട്ടിടത്തിൽ തീ ഉണ്ടെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നു നിങ്ങൾ പരിഭ്രാന്തനാകാൻ തുടങ്ങുന്നു നിങ്ങൾ വിറയ്ക്കുമ്പോൾ നിങ്ങൾ ചലിപ്പിക്കപ്പെടുന്നില്ല പക്ഷേ സ്റ്റെപ്പ് ദൈർഘ്യവും ഘട്ടം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഫോൺ വിറയ്ക്കുന്നു അതിനാൽ ഈ ചലനങ്ങൾ നിങ്ങൾ മാറ്റേണ്ടതുണ്ട് നിങ്ങൾക്ക് അവ കണ്ടെത്താനാകില്ലെങ്കിൽ ലോക്കലൈസേഷൻ കൃത്യമായി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ ഈ ചലനം മാറ്റാൻ നിങ്ങൾ ജേർക് ഡിക്ടെക്ഷൻ നടത്തേണ്ടതുണ്ട് A ടു B B ടു C ഓറിയന്റേഷന് എന്ത് സംഭവിച്ചു നിങ്ങളുടെ ഓറിയന്റേഷൻ മാറ്റുന്നു സ്റ്റെപ്പ് ദൈർഘ്യവും സ്റ്റെപ്പ് എണ്ണവും നിങ്ങൾക്ക് ഒരു വിവരവും നൽകുന്നില്ല നിങ്ങളുടെ ഓറിയന്റേഷൻ മാറി അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ കണ്ടെത്തും അതിനാൽ നിങ്ങൾ ഓറിയന്റേഷൻ സെൻസർ കഴിയുന്നത്ര ഫലപ്രദമായി ഉപയോഗിക്കണം അത് പ്രധാനമാണ് ടെക്സ്റ്റിംഗ് ലളിതമാണ് നിങ്ങൾക്ക് ഉടൻ തന്നെ ഇത് നിർമ്മിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ നിങ്ങൾ സ്വിംഗിംഗ് മോഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ കണ്ടെത്താനാകും സ്വിംഗിംഗ് മോഡ് ഒട്ടും എളുപ്പമല്ല ഒരുപക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് റണ്ണിംഗ് മോഡ് ആണ് അതിനാൽ ലളിതമായ ടെക്സ്റ്റിംഗ് മോഡ് സ്വിംഗിംഗ് മോഡ് റണ്ണിംഗ് മോഡ് എന്നിവ ഒരു ഓറിയന്റേഷനുമായി സംയോജിപ്പിക്കുക എന്നത് തീർച്ചയായും വളരെ കഠിനമായ പ്രശ്നമാണ് ഇത് ചെയ്യാൻ കഴിയുന്നതാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നു ഇത് ചെയ്യുന്നത് ഒരുപാട് രസകരമാണ് പക്ഷേ അത് എളുപ്പമല്ല ഞങ്ങൾ ഇവിടെ വിവരിക്കാത്തത് നിങ്ങൾക്ക് ലോക്കലൈസ് ചെയ്യാൻ കഴിയും പക്ഷേ മാപ്പ് സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ഇതിന്റെ ഭാഗമായി ഇടാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല കാരണം ഇത് ഒരു പ്രത്യേക പ്രവർത്തനമായിരിക്കും അതിനാൽ മാപ്പ് സൃഷ്ടിക്കാൻ ഉളള ഉപകരണങ്ങൾ ഇവിടെ ആവശ്യമാണ് അതിനാൽ നിങ്ങൾ മാപ്പ് സൃഷ്ടിക്കൽ പ്രത്യേകം നോക്കേണ്ടതായി വന്നേക്കാം ഇവിടെക്ക് അവസാനമായി മടങ്ങിവരുന്നു ഓരോ നിലയും സമാനമായി കാണപ്പെടും നിങ്ങൾ ഒരു മൾട്ടിസ്റ്റോറി കെട്ടിടത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ എല്ലാ നിലയും സമാനമായി കാണപ്പെടും നിങ്ങൾ ഫ്ലോർ ഡിറ്റക്ഷൻ ചെയ്യേണ്ടതുണ്ട് അത് ഒരു വെല്ലുവിളിയാണ് നിങ്ങൾ ഏത് നിലയിലാണ് നിങ്ങൾ അഞ്ചാം നിലയിലാണോ ആറാം നിലയിലാണോ നിങ്ങൾക്കെങ്ങനെ അത് അറിയാം പ്രത്യേകിച്ചും തീയുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണെന്നതിന്റെ ട്രാക്ക് നിങ്ങൾക്ക് പലപ്പോഴും നഷ്ടപ്പെടും എന്നിരുന്നാലും നിങ്ങളുടെ അപ്ലിക്കേഷൻ ഇതൊന്നും ചെയ്യാൻ നിങ്ങളെ അനുവധിക്കില്ല അതിനാൽ സിസ്റ്റത്തിന് ഫ്ളോർ കണ്ടുപിടിക്കാൻ കഴിയണം അതിനാൽ സ്റ്റെയർകേസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ നിലയിലെത്താൻ കഴിയുമായിരുന്നു ഈ സാഹചര്യത്തിൽ ആക്സിലറോമീറ്ററിന് നിങ്ങൾക്ക് നല്ല സിഗ്നേച്ചർ നൽകാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലിഫ്റ്റോ എലിവേറ്ററോ ഉപയോഗിച്ചിരിക്കാം ഈ സാഹചര്യത്തിൽ ഒരു ആക്സിലറോമീറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ബാരോമീറ്ററിന് പിടിക്കാൻ കഴിഞ്ഞേക്കാം അതിനാൽ ബാരോമീറ്ററിന്റെ ഉപയോഗം ശരിയായി ആവശ്യമായിരിക്കാം അവസാനമായി ഇവയൊന്നും നിങ്ങൾക്ക് നല്ല കൃത്യത നൽകില്ലെന്ന് ഞാൻ പറയും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബീക്കൺ അധിഷ്ഠിത സിസ്റ്റങ്ങൾ കാണാൻ താൽപ്പര്യമുണ്ടാകാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ചിത്രത്തിലേക്ക് നോക്കുക ഇടനാഴികളിലെ ബീക്കണുകളിലെ കൃത്യമായ പോയിന്റുകളിൽ നിങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ ഞങ്ങൾ ബീക്കൺ സാങ്കേതികവിദ്യയെക്കുറിച്ച് വിശദമായി സംസാരിക്കും പ്രത്യേകിച്ച് BLE ബീക്കണുകൾ ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല പക്ഷേ വേഗത്തിൽ ഐബീകോണുകളും എഡ്ഡിസ്റ്റോൺ മാനദണ്ഡങ്ങളും പറയാം എഡ്ഡിസ്റ്റോൺ ബീക്കണുകളും ഉപയോഗിക്കാം കൂടാതെ നിങ്ങൾക്ക് ബീക്കണുകളും പ്ലസ് പാർട്ടിക്കിൾ ഫിൽട്ടറും മുഴുവൻ ശ്രേണിയിലുള്ള IMU സെൻസറുകളും ഉപയോഗിക്കാനും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച എല്ലാ വെല്ലുവിളികളിലുമുള്ള ഈ വലിയ പ്രശ്നം പരിഹരിക്കാനും കഴിയും ഒരു കെട്ടിടത്തിനുള്ളിലെ തീപിടുത്ത സാഹചര്യത്തിൽ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു നല്ല ആപ്ലിക്കേഷൻ നിങ്ങൾ സൃഷ്ടിക്കുന്നു ഞങ്ങൾ ആർകിടെക്ട്ച്ചർ കണ്ടിരുന്നു ITU ൽ നിന്നുള്ള ഐഒടി നിർവചനം എന്താണെന്ന് ഞങ്ങൾ കണ്ടിരുന്നു വ്യാവസായിക ആപ്ലിക്കേഷനുകൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ ബാറ്ററി ലെസ് ആപ്ലിക്കേഷനുകളും കണ്ടീഷൻ മോണിറ്ററിംഗും നിങ്ങൾക്കറിയാമെന്നതിനാൽ ബെയറിംഗ് ഒരു നല്ല സെൻസറായി ഞങ്ങൾ കാണുന്നു ഈ കോഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഞങ്ങൾ നോക്കിയ പവർ ഊർജ്ജ ഹാർവെസ്റ്റിംഗും ഞങ്ങൾ കണ്ടിരുന്നു പവറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉപകരണങ്ങളെക്കുറിച്ച് നോക്കിയായിരുന്നു ഞങ്ങൾ ഡാറ്റാഷീറ്റുകൾ നോക്കിയിരുന്നു എൽഡിഒയും സ്വിച്ചിംഗ് റെഗുലേറ്ററുകളും കണ്ടായിരുന്നു ഓരോന്നിന്റെയും ഗുണം പരസ്പരം കാണിക്കുകയും പതുക്കെ RFID സിസ്റ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഉദാഹരണത്തിന് ഞങ്ങൾക്ക് പാസീവ് ടാഗുകളും ആക്ടീവ് ടാഗുകളും ഉണ്ട് ലോക്കലൈസേഷൻ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇത് സീക്വൻസാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്നാൽ ഞങ്ങൾ കവർ ചെയ്ത കാര്യങ്ങൾ ഞാൻ വിശാലമായി പറയുന്നു പിന്നെ ഞങ്ങൾ ഒരു എംസിയുവിലേക്ക് പോയി ഇൻറ്റർ നെറ്റ് ഓഫ് തിങ്ങ്സിനായി ഡിസൈൻ പ്രധാനമാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ എംസിയുവിലെ ചോയ്സായി നിങ്ങൾ ഒരു RISC പ്രോസസർ തിരഞ്ഞെടുക്കുമോ അതോ SISC ഒരു പ്രധാന പരാമീറ്ററായ മെമ്മറി എങ്ങനെ തിരഞ്ഞെടുക്കും അതോ ഊർജ്ജ ഉപഭോഗത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ തിരഞ്ഞെടുക്കണോ ഇത് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു അതിനാൽ എംസിയു തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇവ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉദാഹരണത്തിന് ഒരു എംസിയുവിന്റെ ആർക്കിടെക്ചർ വിശദാംശങ്ങളിൽ പ്രവേശിക്കുന്നത് പോലും വളരെ പ്രധാനമാണ് അതായത് സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ പോലുള്ളവ വളരെ പ്രധാനമാണ് അതിനാൽ MAC പ്രവർത്തനത്തിന്റെ ഭാഗമായ മട്ടിപ്ലൈ അക്കൂമുലേറ്ററിനു വേണ്ടി ഒരു മൈക്രോകൺട്രോളറിന്റെയും ഒരു ഡിഎസ്പിയുടെയും ഇടയിൽ നിന്ന് ഏതു തിരഞ്ഞെടുക്കും തുടർന്ന് ഞങ്ങൾ പ്രോട്ടോക്കോളുകളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ കണ്ടു ഞങ്ങൾ COAP റെസ്റ്റ് ബേസ്ഡ് കോർ കൺസ്ട്രെയിൻഡ് റെസ്റ്റ് ആർക്കിടെക്ചർ അടിസ്ഥാനമാക്കിയുള്ള വേഗത കുറഞ്ഞ NQTT പബ്ലിക് സബ്സ്ക്രൈബിലേക്കും പോയിരുന്നു ഞങ്ങൾ AMQP കണ്ടു അതായിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്ത പ്രോട്ടോക്കോൾ ലോ പവർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളായ BLE ZigBee ഒരു പരിധിവരെ NFC എന്നിവയും ഞങ്ങൾ കണ്ടിരുന്നു പിന്നെ ഞങ്ങൾ LPWAN നോക്കി ലോ പവർ വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾ ഞങ്ങൾ മറ്റൊരു ബദലായി ലോറ സിഗ്ഫോക്സിനെ കുറിച്ചും സംസാരിച്ചു വരാനിരിക്കുന്ന മാനദണ്ഡങ്ങളായ N BIoT LTEM cat LTEM ഉപയോഗിച്ച് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കുകളിലൂടെ യഥാർത്ഥത്തിൽ എങ്ങനെ ആശയവിനിമയം നടത്താം ഏരിയ നെറ്റ്വർക്കുകൾ തുടങ്ങിയവയെ കുറിച്ചും ഞങ്ങൾ പരിശോധിച്ചു അവസാനമായി ഞങ്ങൾ എൻഡ് ടു എൻഡ് സിസ്റ്റങ്ങളിലേക്ക് നോക്കി നമ്മൾ ഒരു എനർജി മീറ്ററിന്റെ ഉദാഹരണങ്ങൾ എടുത്തു നമ്മൾ ജൂൾ ജോട്ടറിനെ നോക്കി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെയും ഡെൽഫ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയുടെയും സംയുക്ത പരിശ്രമമാണ് ജൂൾ ജോട്ടർ അതിനാൽ ഞങ്ങൾ ഇത് ഒരു ഗ്രാന്റ് ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്തു എസിഎം സിഗ്കോമിൽ നിന്ന് ഉള്ള ഒരു ഗ്രാന്റായിരുന്നു ഞങ്ങൾ ഈ എനർജി മീറ്റർ ആ ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മിച്ചു ഏറ്റവും ജനപ്രിയമായ IoT Wi Fi മൊഡ്യൂളിനുള്ള ആവശ്യകതകൾ സോഴ്സ് കോഡ് ഉൾപ്പെടെ ജൂൾ ജോട്ടർ എങ്ങനെ നിർമ്മിക്കാമെന്നതിന്റെ ഒരു ഉദാഹരണവും ഞാൻ കാണിച്ചുതന്നു അത് ESP മൊഡ്യൂളാണ് മുമ്പത്തെ ഡെമോയിൽ ഞങ്ങൾ കാണിച്ച പൾസ് ആപ്ലിക്കേഷനും ഞങ്ങൾ പരിശോധിച്ചു അത്തരമൊരു സിസ്റ്റം എങ്ങനെ നിർമ്മിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു തുടർന്ന് എങ്ങനെയാണ് നിങ്ങൾ ക്ലൌഡിലേക്ക് ഡാറ്റ അപ്ലോഡുചെയ്യുകയും എല്ലാം ക്ലൌഡിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു സെൻസർ ഗേറ്റ്വേ എഡ്ജ് ഉപകരണം മൊബൈൽ ഫോണിനൊപ്പം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ അവസാനം സംഗ്രഹിച്ചിരുന്നു കൂടാതെ ഞങ്ങൾ മൊബൈൽ ഫോൺ സെൻസറുകളുടെ ഒരു കേസ് എടുത്തു പ്രത്യേകിച്ച് ഇനേർഷിയൽ മെഷർമെന്റ് യൂണിറ്റ് ഇൻഡോർ ലോക്കലൈസേഷൻ പ്രശ്നത്തെക്കുറിച്ച് കുറച്ച് വിശദീകരിച്ചിരുന്നു അത് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നന്നായി പരിഹരിക്കാൻ കഴിയും ഫോൺ കൈവശമുള്ള ഏതൊരു ഉപയോക്താവിനും ലോക്കലൈസ് ചെയ്യാൻ കഴിയും മനുഷ്യനെ കൃത്യമായി ലോക്കലൈസ് ചെയ്യുന്ന തിനായി പലതരം വെല്ലുവിളികൾ നേരിടേണ്ടതുണ്ട് നിങ്ങൾ ഈ കോഴ്സ് ആസ്വദിച്ചുവെന്ന് കരുതുന്നു ഈ കോഴ്സ് ഇപ്പോൾ കാണുന്ന രീതിയിൽ നിർമ്മിക്കുന്നതിൽ നിരവധി ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് സഹപ്രവർത്തകരായ നാഗകൃഷ്ണൻ മാധുരി മാധവ് അഭിരാമി എന്നിവരുടെ ഒരു വലിയ പിന്തുണ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സുഹൈബ് അഹമ്മദ് പ്രവീൺ അനുജ എന്നിവരുടെയും സഹായം കിട്ടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാ റെക്കോർഡിംഗ് ജോലികളും ചെയ്ത എല്ലാ ടീം അംഗങ്ങളും സിസ്റ്റങ്ങൾ സജ്ജീകരിക്കാൻ മനസിലാക്കാൻ എന്നെ സഹായിച്ച മാധുരി അയ്യറിനെപ്പോലുള്ള ചില മുതിർന്ന പ്രോജക്ട് സ്റ്റാഫുകളെയും എനിക്ക് മറക്കാൻ കഴിയില്ല നിരവധി കാര്യങ്ങളുടെ ഡെമോകൾ ശരിയായി കാണിക്കാൻ കഴിഞ്ഞു മൊത്തത്തിൽ ഇത് രസകരമായിരുന്നു നിങ്ങൾ കോഴ്സ് ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെയധികം നന്ദി